അതിനാൽ നമ്മുടെ മുൻ പ്രഭാഷണം തുടരുന്നു അവിടെ ഞാൻ ചില വി എൽ എസ് ഐ ഡിസൈൻ ഓട്ടോമേഷൻ ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു അതിനാൽ ഈ ഭാഗം 2 ൽ നമ്മൾ ചർച്ച തുടരുകയും ഫിസിക്കൽ ഡിസൈൻ സൈക്കിളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില ഘട്ടങ്ങൾ നോക്കുകയും ചെയ്യുന്നു അതിനാൽ ടൈമിംഗ് അനാലിസിസിന്റെ സ്റ്റാറ്റിക് അനാലിസിസ് എന്താണെന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് ആരംഭിക്കും നമുക്ക് ഒരു പൊതു കാഴ്ചപ്പാടിൽ ഒരു ഡിസൈൻ നോക്കാം അതിനാൽ നമ്മൾ ഒരു ഡിസൈൻ സൃഷ്ടിക്കുമ്പോൾ ചില ഡിസൈൻ സ്പെസിഫിക്കേഷനുകൾ നിറവേറ്റാൻ സാധാരണയായി ഡിസൈൻ സ്പെസിഫിക്കേഷനുകൾ അർത്ഥമാക്കുന്നത് ചില കാര്യങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ക്ലോക്ക് ഫ്രീക്വൻസിയിൽ ഈ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ട് ലൈനുകൾക്കുമിടയിലുള്ള പരമാവധി കാലതാമസം അത്തരം ചില കാര്യങ്ങളുണ്ടാകാം ഇഅത്തരം ചില കാര്യങ്ങളുണ്ടാകാം ഇവ സമയവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളാണ് പ്രത്യേകതകൾക്കനുസൃതമായി തൃപ്തികരമായ ഒരു ഡിസൈൻ യോഗ്യത നേടുന്നതിന് ഇത് തൃപ്തിപ്പെടുത്തണം ഇപ്പോൾ സംഭവിക്കാനിടയുള്ളത് നിങ്ങൾ ഡിസൈൻ പ്രക്രിയയിൽ ഒരിക്കൽ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസൈനിൽ എത്തിച്ചേരും അത് പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ശരിയാണ് എന്നാൽ ഫങ്ക്ഷണാലിറ്റി അത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കോ ആവശ്യത്തിനോ അനുസൃതമായി ഡിലേ വൈസ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് കാണുന്നത് കാറ്റ് ടൂൾസ് സിനോപ്സിസിന്റെ ട്രാൻസ്ലേഷനായി ഉപയോഗിക്കുന്ന ടൂൾസ് നിങ്ങൾ കാണുന്നു കാഡൻസ് മെന്റർ ഗ്രാഫിക്സ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്തും അതീവ സങ്കീർണമായ സോഫ്റ്റ്വെയറുകളാണ് അവ സൃഷ്ടിക്കുന്നതെന്തും ഏറ്റവും മികച്ചതായിരിക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യകതകൾ എല്ലായ്പ്പോഴും നിറവേറ്റാനാകുമെന്നും നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസൈനിലെ വിധിയെ വിലയിരുത്തുന്നതിന് നിങ്ങൾക്ക് ടൂളുകളുമായോ സിസ്റ്റങ്ങളുമായോ തുടർച്ചയായി ഇടപെടേണ്ടതുണ്ട് ഇപ്പോൾ സ്റ്റാറ്റിക് ടൈം അനാലിസിസ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കാരണം ലളിതമായ കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സർക്യൂട്ട് ഡിസൈനുകളെക്കുറിച്ചാണ് അവിടെ നമുക്ക് വളരെ കർശനമായ ടൈമിംഗ് റിക്കവയർമെൻറ്സ് റിയൽ ടൈം റിക്കവയർമെൻറ്സ് മിനിമം ക്ലോക്ക് ഫ്രീക്കവൻസി റിക്കവയർമെൻറ്സ് എന്നിവയുണ്ട് അതിനാൽ വിശദമായ ഫാബ്രിക്കേഷൻ ഘട്ടങ്ങളിലേക്ക് പോകുന്നതിനുമുമ്പ് സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് വിശകലനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചില തിരുത്തൽ നടപടികളെടുക്കാം നിങ്ങളുടെ നെറ്റ്ലിസ്റ്റ് നിങ്ങൾക്ക് പരിഷ്ക്കരിക്കാനാകും ആ വിധത്തിൽ നമ്മുടെ ക്ലോക്കുകൾ വേഗത്തിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഏതെങ്കിലും തരത്തിലുള്ള വേർസ്റ് കേസ് അനാലിസിസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് അടിസ്ഥാനപരമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് വിശകലനം ചെയ്യാനും വേർസ്റ് കേസ് സർക്യൂട്ട് ഡിലെയ്സ് നിർണ്ണയിക്കാനും ഇത് ശ്രമിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചു വേർസ്റ് കേസ് സർക്യൂട്ട് ഡിലെ നിങ്ങൾ കണക്കാക്കുമ്പോൾ ഇവിടെ കാണുക ഗേറ്റുകളുടെ ഡിലെ ചില ഒറ്റ സംഖ്യകളായി മാത്രമല്ല നിങ്ങൾ പരിഗണിക്കുക ഈ ഗെറ്റിന്റെ ഡിലെ 5 ആണെന്നും ആ ഗെറ്റിന്റെ ഡിലെ 4 ആണെന്നും ഇത് 3 ആണെന്നും അങ്ങനെ മൊത്തം ഡിലെ കണക്കുകൂട്ടുന്നതുപോലെ കാര്യങ്ങൾ ലളിതമാക്കാൻ എനിക്ക് പറയാൻ കഴിയും പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല അതിനാൽ വിഎൽഎസ്ഐ ചിപ്പിൽ ഗേറ്റുകൾ നിർമ്മിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡീപ് സബ്മൈക്രോൺ ടെക്നോളജി അതിന്റെ പരാമീറ്ററുകളിൽ വളരെയധികം വ്യതിയാനങ്ങൾ ഉണ്ടാകാം ഒരു ഗേറ്റിന് 5 ഡിലെ വരാം അല്ലെങ്കിൽ മറ്റേ ഗേറ്റിന് 4 7 മറ്റേത് 5 2 വരെ ഡിലെ ഉണ്ടാകും അതിനാൽ വളരെയധികം ഡിലെ ഉണ്ടാകും അതിനാൽ നമ്മൾ അതിനെ ഡിസൈൻ സ്ലാക്ക് എന്ന് വിളിക്കുന്നു കുറച്ച് മിനിമം വാല്യൂ കുറച്ച മാക്സിമം വാല്യൂ അതിനാൽ ഗേറ്റ് ഡിലെ അതിനുള്ളിൽ തുടരേണ്ടതുണ്ട് അത് അതിനുള്ളിലല്ലെന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ സർക്യൂട്ട് പരാജയപ്പെടും എന്നാൽ ഫാബ്രിക്കേഷൻ സമയത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കുന്നത് അത് ആ പ്രദേശങ്ങൾക്കുള്ളിലായിരിക്കണം എന്നതിന് മതിയായ പരിഗണന നൽകണം അതുപോലെ തന്നെ സിഗ്നലുകളുടെ റൈസിംഗ് ടൈമും ഫാളിംഗ് ടൈമും അതിനാൽ ഈ സ്ലാക്ക് വാല്യൂസ് നിർണ്ണയിക്കാൻ മാക്സിമം അല്ലെങ്കിൽ സ്ലോവെസ്റ് റൈസിംഗും സ്ലോവെസ്റ് ഫാളിംഗും ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒന്നാണ് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേർസ്റ് കേസ് ഡിലെ കണക്കാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ക്ലോക്ക് സിഗ്നൽ നൽകാവുന്ന പരമാവധി ഫ്രീക്കവൻസി നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും സർക്യൂട്ടിൽ നിങ്ങൾക്ക് ചില വിശകലനങ്ങൾ നടത്താനും ചില സർക്യൂട്ട് പരിഷ്ക്കരണങ്ങൾ നിർദ്ദേശിക്കാനും കഴിയും സർക്യൂട്ട് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും ക്ലോക്കുകൾ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും ആധുനിക സംവിധാനങ്ങളിൽ ഇത് ഒരു സുപ്രധാന ഘട്ടമാണെന്ന് ഞാൻ അതിനാൽ പറയുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ 4 ഗേറ്റുകൾ അടങ്ങുന്ന ഒരു ലളിതമായ കോമ്പിനേഷണൽ സർക്യൂട്ട് നമ്മുടെ പക്കലുണ്ട് ഈ ABCയാണ് പ്രാഥമിക ഇൻപുട്ടുകൾ ഈ Jയും മറ്റൊരു D യും ഇവയാണ് ഔട്ട്പുട്ടുകൾ അതിനാൽ നമുക്ക് ഇത് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫായി മാതൃകയാക്കാം അവിടെ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും നമ്മൾ 2 ഡമ്മി നോഡുകൾ ഉപയോഗിക്കുന്നു ഓരോ സിഗ്നൽ ലൈനും അല്ലെങ്കിൽ ഓരോ ഗേറ്റും ഒരു വെർട്ടെക്സ് ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാമെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ഓരോ സിഗ്നൽ ലൈനും നമുക്ക് ഈ ഗ്രാഫിലെ ഒരു വെർടെക്സ് ആയി പ്രതിനിധീകരിക്കാം ഇവിടെ ഈ ഡമ്മി നോഡ് നമുക്ക് അതിനെ സോഴ്സ് എന്ന് വിളിക്കാം നമ്മൾ അതിനെ ns എന്ന് ലേബൽ ചെയ്യുന്നു ഇവിടെ ഡമ്മി നോഡ് ഇതാണ് ഫൈനൽ nf ഇൻപുട്ട് സൈഡിൽ നമ്മുടെ പക്കൽ A B C എന്നിവയ്ക്കുള്ള നോഡുകൾ ഉണ്ട് ഇവിടെ D E F നിങ്ങൾ ഈ E F എന്നിവ ഒരേ ലൈനിൽ കാണുന്നു അവ വൈദ്യുതപരമായി തുല്യമാണ് എന്നാൽ ഈ പരസ്പരബന്ധം മാതൃകയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇവ ദീർഘമായ ഇന്റർ കണക്ഷൻ ലൈനുകളായിരിക്കാം അതിനാൽ ഞാൻ E F എന്നിവ 2 വ്യത്യസ്ത നോഡുകളിൽ ഉപയോഗിക്കുന്നു അതുപോലെ G I D H HJGI ഇതുപോലെയാണ് ഈ ഗ്രാഫിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഈ ഓരോ എഡ്ജിനും ഒരു വെയിറ്റ് ഉണ്ടാകും ഈ വെയിറ്റ് ഒന്നുകിൽ ഗേറ്റിന്റെ ഡിലെ സൂചിപ്പിക്കാം ഇന്റർകണക്ഷന്റെ ഡിലെ അല്ലെങ്കിൽ രണ്ടും ഉദാഹരണത്തിന് നിങ്ങൾ എയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഇന്റർകണക്ഷനിലൂടെയും ഈ ഗേറ്റിന്റെ ഡിലെലൂടെയും കടന്നുപോകുന്നു തുടർന്ന് നിങ്ങൾ ഡിയിലെത്തും എന്നാൽ നിങ്ങൾ ഇയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോൾ അത് വെറും ഇന്റർകണക്ഷൻ ആണ് ജി ടു ഐ ഇന്റർകണക്ഷൻ ആണ് അതിനാൽ നിങ്ങൾ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മോഡൽ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മോഡൽ ചെയ്യുമ്പോൾ ഈ വെയ്റ്റുകൾക്ക് ചില യഥാർത്ഥ മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിലൂടെ കടന്നുപോകുന്ന ഒരു ഷോർട്ടസ്റ് പാത്തോ അല്ലെങ്കിൽ ലോങ്സ്റ് പാത്തോ അൽഗോരിതം ലഭിക്കും അതുവഴി ഏറ്റവും ലോങ്സ്റ് ഡിലെ ns നും nf നും ഇടയിലുള്ള ഏറ്റവും ലോങ്സ്റ് ഡിലെ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇപ്പോൾ ഈ സർക്യൂട്ട് മുഴുവൻ എനിക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടെന്ന് കരുതുക അതിനാൽ ഞാൻ ഈ സർക്യൂട്ട് ഒരു ബോക്സ് ബ്ലാക്ക് ബോക്സ് ആയി കാണിക്കുന്നു അതിനാൽ എ ബി സിയാണ് ശരിയായ ഇൻപുട്ടുകൾ ഡി ജെ എന്നിവയാണ് 2 ഔട്ട്പുട്ടുകൾ ഇവ ചില സ്റ്റോറേജ് ഘടകങ്ങളിലേക്ക് നൽകപ്പെടുന്നുവെന്ന് കരുതുക ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ക്ലോക്ക് ആണെന്ന് പറയട്ടെ അതിനാൽ ഈ ഔട്ട്പുട്ട് മറ്റേതെങ്കിലും സർക്യൂട്ട് എലെമെന്റിലേക്ക് പോകാം അത് ഇന്റേൺ A നൽകട്ടെ ഇപ്പോൾ ടൈമിംഗ് അനാലിസിസിലൂടെ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ സർക്യൂട്ടിൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള പരമാവധി ഡി ലെ നമുക്ക് ഡെൽറ്റ ഡി എന്ന് പറയാം അപ്പോൾ ഇവിടെ ലഭ്യമായ ഈ സർക്യൂട്ട് മൊഡ്യൂൾ എനിക്ക് വിലയിരുത്താനാകുമെന്ന് എനിക്ക് കാണാൻ കഴിയും ഡെൽറ്റ ഡെൽറ്റയാണ് അതിനാൽ നിങ്ങൾ ക്ലോക്ക് പിരീഡ് ടി ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന ക്ലോക്ക് സിഗ്നൽ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഡി എന്നതിനേക്കാൾ വലുതായിരിക്കണം ഈ സർക്യൂട്ടിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള സമയ പരിമിതി ഇതാണ് അതിനാൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കിടയിലുള്ള ഓരോ സർക്യൂട്ട് ബ്ലോക്കുകളുടെയും ഒരു സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോക്ക് പൾസുകൾക്കിടയിലെ വേർസ്റ് കേസ് ടൈമിംഗ് ഡിലെ സംബന്ധിച്ച് വളരെ ന്യായമായ ഒരു വിലയിരുത്തൽ ലഭിക്കും അതുവഴി നിങ്ങൾക്ക് കുറഞ്ഞത് ന്യായമായ അളവെങ്കിലും അറിയാൻ കഴിയും എത്രയെന്നോ എന്തെന്നോ ഉള്ള കൃത്യത നിങ്ങൾക്ക് ശരിയായി പ്രയോഗിക്കാൻ കഴിയുന്ന ക്ലോക്കിന്റെ മാക്സിമം ഫ്രേക്വീൻസി അതിനാൽ അടിസ്ഥാനപരമായി ഇത് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസിന്റെ പ്രധാന ഉദ്ദേശ്യമാണ് എന്നാൽ പിന്നീട് ഈ വിഷയം കൂടുതൽ വിശദമായി പരിശോധിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു സർക്യൂട്ട് ക്രമീകരിക്കാനുള്ള തെറ്റായ പാത നിർണ്ണയിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇതുപോലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം നമുക്ക് ചില കോമ്പിനേഷണൽ സർക്യൂട്സ് ഉണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫീഡിങ് ഇങ്ങനെയായിരിക്കും തുടർന്ന് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് പിന്നെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്തെങ്കിലും ആകാം നിങ്ങൾ ഇവിടെയുള്ളതുപോലെ തിരികെ നൽകുന്നു ഇപ്പോൾ ഇത് കുറച്ചു നീക്കാൻ കഴിയും ഈ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിരവധി ഗേറ്റുകൾ അടങ്ങിയിരിക്കാം ഈ സർക്യൂട്ടിന്റെ കുറച്ച് ഭാഗം ഇവിടെയോ അല്ലെങ്കിൽ തിരിച്ചോ കൊണ്ടുവരാനും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയിനിൽ അല്പം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 എന്നീ സർക്യൂട്ടുകളുടെ ഈ ഡിലെ ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് മിസ് മാച്ച് ആണെങ്കിൽ ഡെൽറ്റ 3 ഡെൽറ്റ 1 അല്ലെങ്കിൽ ഡെൽറ്റ 2 നെക്കാൾ ഗണ്യമായി വലുതാണെന്ന് കരുതുക അപ്പോൾ ഡെൽറ്റ മൂന്ന് പ്രധാന ഡിലെ ആയിരിക്കും ക്ലോക്ക് ഫ്രേക്വീൻസി മാക്സിമം ക്ലോക്ക് ഫ്രേക്വീൻസി നിർണ്ണയിക്കുന്നു എന്നാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ചെയിനിൽ ഇത് മുന്നോട്ടും പിന്നോട്ടും നീക്കി നിങ്ങൾക്ക് ഇത് സന്തുലിതമാക്കാൻ കഴിയുമെങ്കിൽ ഈ ഡെൽറ്റകൾ ഏകദേശം തുല്യമാകുന്നതിനാൽ നിങ്ങൾക്ക് ക്ലോക്ക് ഫ്രേക്വീൻസിയിൽ ചില ഒപ്റ്റിമൈസേഷൻ നടത്താം അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും സിഗ്നൽ ഇന്റെഗ്രിറ്റിയും സർക്യൂട്ടുകളിലെ ക്രോസ്റ്റാക്ക്സും പരിഗണിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ഒരു സബ് മൈക്രോൺ വി എൽ എസ് ഐ ചിപ്പിൽ കാണുന്നു 2 ഇന്റർകണക്ഷൻ വയറുകൾ തമ്മിലുള്ള വിടവുകൾ വളരെ കുറവാണ് ഫാബ്രിക്കേഷൻ എറർ കാരണം അവർക്ക് അടച്ചു പൂട്ടാൻ പോലും കഴിയും അതിനാൽ ഒരു വരിയിൽ ഒരു സിഗ്നൽ ട്രാന്സിഷൻ ഉണ്ടെങ്കിൽ ആ ട്രാന്സിഷൻ മറ്റൊരു വരിയിലേക്ക് കൂട്ടിച്ചേർക്കും നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഒരു ഏറററിലേക്ക് നയിച്ചേക്കാം അതിനാൽ ഒരു ലൈനിൽ ഒരു സിഗ്നൽ ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ ആ ട്രാൻസിഷനെ മറ്റൊരു ലൈനിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ആ സിഗ്നൽ ലൈനുകൾ നയിക്കുന്ന കണക്കുകൂട്ടലിലോ കണക്കുകൂട്ടലിലോ ഒരു പിശകിന് ഇടയാക്കും അതിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിഗ്നൽ സമഗ്രതയും ക്രോസ്റ്റാക്ക് പ്രശ്നങ്ങളും വിശകലനം ചെയ്യാനും ഒരു കൂട്ടം സമീപനങ്ങളുമായി മുന്നോട്ടുപോകാനും കഴിയണം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഇത് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പ്രായോഗിക സർക്യൂട്ടുകളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കും അതിനാൽ സാധാരണയായി രൂപകൽപ്പന ചെയ്ത നിയമങ്ങൾ ഉപയോഗിക്കുന്നത് തികച്ചും യാഥാസ്ഥിതികമാണ് എന്നാൽ നിങ്ങൾ ഈ ഡിസൈൻ റൂൾസ് പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഡിസൈൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിസൈൻ റൂൾ എന്നാൽ ലൈനിന്റെ ഏറ്റവും കുറഞ്ഞ വിഭജനം ഇതായിരിക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ പുറത്തുവിടുന്ന എല്ലാ വരികളിലും മിനിമം സെപറേഷൻ ഇതായിരിക്കണമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക യഥാർത്ഥത്തിൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് കൂടാതെ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് ലൈനുകളുടെ പരമാവധി ദൈർഘ്യം പരിമിതപ്പെടുത്താനും കഴിയും കാരണം ഒരു ലോങ്ങ് ഇന്റർകണക്ഷൻ ലൈൻ വിതരണം ചെയ്ത റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് ഇഫക്റ്റുകൾ വരാം ഇത് സിഗ്നൽ ഡിലേക്ക് മാത്രമല്ല സിഗ്നൽ ഡീഗ്രേഡേഷനും ഇടയാക്കും സിഗ്നൽ നിങ്ങൾ മറ്റ് ചില സർക്യൂട്ടുകൾക്ക് ഫീഡ് ചെയ്യുന്നെങ്കിൽ ഡീഗ്രേഡേഷൻ കാരണം പിശകുകൾ ഉണ്ടാകാം എന്നാണ് അർത്ഥമാക്കുന്നത് അത്തരത്തിലുള്ള ഒന്ന് 0 ആയി അംഗീകരിക്കപ്പെട്ടേക്കാം ശരി അതിനാൽ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ ഈ ഗേറ്റുകളുടെ ഔട്ട്പുട്ടിന് ചില സിഗ്നൽ ട്രാന്സിഷൻസ് നടക്കുന്ന ചില ഗേറ്റുകൾ നിങ്ങൾ ഇവിടെ കാണിക്കുന്നു രണ്ടാമത്തെ ഗേറ്റ് ട്രാന്സിഷൻ ഈ ഗേറ്റിന് സംഭവിക്കുന്നു ഈ ട്രാന്സിഷൻ ഈ ട്രാന്സിഷനേക്കാൾ അല്പം വൈകുന്നു കാരണം ഈ 2 ഇന്റർകണക്ഷൻ ലൈനുകൾ പരസ്പരം സമാന്തരമായി ഓടുകയും വളരെ അടുത്തായി ഒരു കപ്പാസിറ്റീവ് കപ്ലിംഗ് ഉണ്ടാകുമെന്നും നമുക്ക് പറയാം കപ്പാസിറ്റീവ് കപ്ലിംഗ് കാരണം അങ്ങനെ സംഭവിക്കാം ഈ സിഗ്നൽ ലൈനിൽ രണ്ടാമത്തേത് ഇതുപോലുള്ള ഒരു ശുദ്ധമായ പരിവർത്തനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ വർദ്ധിച്ചുവരുന്ന പെട്ടെന്നുള്ള ഉയർച്ച കാരണം ഇവിടെ ഇതുപോലെ പെട്ടെന്നുള്ള നോയ്സ് സിഗ്നൽ ഇൻജെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഈ നോയ്സ് സിഗ്നൽ ആണെങ്കിൽ മതിയായ വ്യാപ്തിയിൽ ഈ സിഗ്നൽ മറ്റേതെങ്കിലും ഗേറ്റിനെ ഫീഡ് ചെയ്യുന്നു അതിനാൽ ഇത് താൽക്കാലികമായി ഒരു 0 ആയി തിരിച്ചറിഞ്ഞേക്കാം തുടർന്ന് വീണ്ടും 1 അങ്ങനെ അതിനാൽ അത് ഒരു ടൈമിംഗ് ഏറററിലേക്കും കാൽകുലേഷൻ ഏറററിലേക്കും നയിച്ചേക്കാം അതിനാൽ ഇത് ഞാൻ നൽകിയ വളരെ ലളിതമായ ഒരു ഉദാഹരണം മാത്രമാണ് എന്നാൽ ഇവിടെ നമ്മൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്ത നമ്മുടെ അടുത്ത മൊഡ്യൂളുകളിൽ ഡിലെയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും നമ്മൾ നോക്കും ഈ ക്ലോക്കിന് ഞാൻ നേരത്തേ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലോക്കിനും പവർ റൂട്ടിംഗിനും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് ക്ലോക്ക് സിഗ്നലുകൾ ഉള്ളപ്പോൾ അത് സിഗ്നലുകൾ ഉണ്ടായിരിക്കേണ്ട വ്യത്യസ്ത പോയിന്റുകളിലേക്ക് വിതരണം ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നം മാത്രമല്ല ഈ സ്റ്റോറേജ് എലെമെന്റുകളുടെ ശരിയായ പ്രവർത്തനത്തിന് തൃപ്തിപ്പെടേണ്ട നിരവധി ക്ലോക്ക് സംബന്ധമായ പരാമീറ്ററുകൾ ഉണ്ട് റൈസ് ടൈം ഫാൾ ടൈം സെറ്റപ്പ് ടൈം ഹോൾഡ് ടൈം അത്തരം ഡിലെ റിലേറ്റഡ് പരാമീറ്ററുകൾ ധാരാളം ഉണ്ട് അവ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഡിസൈൻ നല്ലതാണെങ്കിൽ ആ ഡിലെ പരിധിക്കുള്ളിൽ തന്നെ തുടരും ഈ സർക്യൂട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസിയുടെ ഒരു യഥാർത്ഥ മൂല്യം കൊണ്ടുവരാൻ നിങ്ങൾ അവയെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് അതിനാൽ ക്ലോക്ക് റൂട്ടിംഗിനായി നിങ്ങൾ ഡിലെ സ്ക്വീസ് ആൻഡ് ഹസാർഡ്സ് എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് നേരത്തെ ഞാൻ എടുത്ത ഉദാഹരണം നമ്മൾ ക്ലോക്ക് സ്ക്വീസിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്ലോക്ക് സ്ക്വീവ് എന്നാൽ ഒരേ ക്ലോക്ക് ഒരേ ക്ലോക്ക് 2 വ്യത്യസ്ത സമയങ്ങളിൽ 2 വ്യത്യസ്ത പോയിന്റുകളിൽ എത്തുന്നു എന്നാൽ ആ H ട്രീ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഇന്റർ കണക്ഷൻ ദൈർഘ്യങ്ങളും തുല്യമാക്കുന്നതിലൂടെയുള്ള സമീപനം ഇന്റർകണക്ഷൻ ഡിലെയും തുല്യമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ സ്ക്വീവ് വലിയ അളവിൽ കുറയ്ക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇതുവരെയാണ് ഒരു ക്ലോക്കിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പക്ഷേ Vdd ഗ്രൌണ്ട് എന്നിവ ഉപയോഗിച്ചുള്ള പവർ റൂട്ടിംഗ് ഇതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ആണ് കാരണം ഒരു കാര്യം ഡാറ്റ കൊണ്ടുപോകുന്ന സാധാരണ സിഗ്നലുകൾക്കൊപ്പം പവർ സിഗ്നലുകളും മിക്സ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കരുത് എന്നതാണ് കാരണം ഡാറ്റ വ്യതിയാനങ്ങൾ പവർ സിഗ്നലുകളിലേക്ക് കപ്പിൾ ചെയ്യരുത് അവ സ്വീകാര്യമല്ലാത്ത പവർ സപ്ലൈ വേരിയേഷൻസ് സൃഷ്ടിക്കുന്നു അതിനാൽ സാധാരണയായി പവർ സിഗ്നലുകൾ Vdd ഉം ഗ്രൌണ്ടും അവർ പ്രത്യേക ഡെഡിക്കേറ്റഡ് മെറ്റൽ ലയേഴ്സിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇന്റർഫെറെൻസും ക്രോസ്സ്റ്റാക്കും അവിടെ കുറവാണ് ചില സ്ഥലങ്ങളിൽ ചിപ്പിന്റെ വിവിധ ഭാഗങ്ങളിലെ വൈദ്യുതി ആവശ്യകതകളിലെ വ്യതിയാനങ്ങൾ കാരണം ചിലയിടങ്ങളിൽ ലൈനുകൾ കൂടുതൽ വിശാലമാകാം ചിലയിടങ്ങളിൽ ലൈനുകൾ വളരെ കുറവായിരിക്കണം അതിനാൽ സിഗ്നൽ ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി ലൈനുകളുടെ വീതി നിശ്ചയിച്ചിട്ടില്ല എവിടെയെങ്കിലും ധാരാളം വൈദ്യുത പ്രവാഹം പ്രതീക്ഷിക്കുന്നു എങ്കിൽ ലൈൻ കൂടുതൽ വിശാലമാകും വൈദ്യുതി വിതരണത്തിൽ വൈദ്യുതി സിഗ്നലുകൾ വിതരണം ചെയ്യപ്പെടുന്നതിനാൽ പിന്നീട് ലൈനുകൾ നേർത്തതും നേർത്തതും കനംകുറഞ്ഞതുമായി മാറും അതിനാൽ ഇതിന് ഒരു പ്രിയോറി പവർ ആവശ്യമാണ് ഈ ലൈനുകളുടെ കൃത്യമായ വീതി തീരുമാനിക്കാൻ ഇത് ചെയ്യണം അതിനാൽ നമ്മൾ നേരത്തെ കണ്ട ക്ലോക്ക് ജനറേറ്റർ കണ്ട അതേ ഡയഗ്രമാണ് എന്നാൽ ഒരു യഥാർത്ഥ ക്ലോക്ക് ഡിസ്ട്രിബൂഷൻ സെനാരിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ക്ലോക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ ഒരേപോലെ സ്ഥിതിചെയ്യണമെന്നില്ല അതിനാൽ നമുക്ക് ഒരു സെനാരിയോ ഉണ്ട് ഈ ചെറിയ പ്രോസസ്സ് എനിക്ക് ഈ സിഗ്നൽ വിതരണം ചെയ്യേണ്ട പോയിന്റുകൾ ആണ് കൂടാതെ ക്ലോക്ക് എവിടെയെങ്കിലും കേന്ദ്രീകൃതമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അതിനാൽ വിവിധ പാരാമീറ്ററുകൾ നിർണ്ണയിക്കുന്നതിന് ഈ സന്ദർഭങ്ങളിൽ ക്ലോക്ക് സ്കേവ് കുറയ്ക്കുന്നതിന് ധാരാളം ഞാൻ ഉദ്ദേശിക്കുന്നത് ഷെയറിങ്ങിനു സങ്കീർണ്ണമായ വിശകലനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് അതിനാൽ ഇതിനെക്കുറിച്ച് ചില അൽഗോരിതങ്ങൾ പിന്നീട് നോക്കാം Vdd ഗ്രൌണ്ട് നെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സെഗ്മെന്റുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു വേരിയബിൾ വിഡ്ത് ഉണ്ടായിരിക്കാം സങ്കീർണ്ണമായ ലൈൻ വിഡ്ത് കാൽകുലേഷൻ ആവശ്യമാണ് അവ സാധാരണയായി ഒരു പ്രത്യേക മെറ്റൽ ലയേറിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇപ്പോൾ വി എൽ എസ് ഐ ഫിസിക്കൽ ഡിസൈനിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന അവസാന കാര്യം ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന പ്രക്രിയയാണ് അതിനുശേഷം ഡിസൈൻ സൈൻ ഓഫ് ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷനിലൂടെ എന്തെങ്കിലും പരിശോധിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ നോക്കൂ നമ്മൾ പ്ലേസ്മെന്റ് റൂട്ടിംഗ് തുടങ്ങിയവയുടെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി നിങ്ങൾ ഒരു ലേഔട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനാകാത്ത ഒരു പരിശോധന കളുണ്ട് അത് ചെയ്യേണ്ടത് ഒരു ഓട്ടോമാറ്റിക് മാർഗമാണ് ഒരു മൈക്രോസ്കോപ്പിക് മെക്കാനിസം ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ ലേ ഔട്ട് നോക്കണം നിങ്ങൾക്ക് ലേ ഔട്ടിലേക്ക് നോക്കാം അവിടെ നിങ്ങൾക്ക് അപാകതകൾ കണ്ടെത്താനാകും കാരണം നിങ്ങൾക്ക് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള 2 വയറുകൾ പോലെയുള്ള ചില ഡിസൈൻ റൂൾസ് ഉണ്ടായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടി പരിഷ്കരിക്കുന്നു 2 വയറുകൾ ഒരേ ലെയർ സെപ്പറേഷനിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇതായിരിക്കണം 2 വയറുകൾ വ്യത്യസ്ത ലെയറുകളിലാണെങ്കിൽ വേർതിരിക്കൽ ഇതായിരിക്കണം അതുപോലെ ലയേറിന്റെ ഏറ്റവും കുറഞ്ഞ വീതി ഇത് മെറ്റൽ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വീതി എത്രയായിരിക്കണം പോളിസിലിക്കൺ ആണെങ്കിൽ അതിന്റെ വീതി എന്തായിരിക്കണം ഡിഫുഷൻ ആണെങ്കിൽ വീതി എന്തായിരിക്കണം ഇത് ഒരു കോൺടാക്റ്റ് കണക്ഷനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവ് എന്താണ് ഇവയാണ് ചില ഡിസൈൻ റൂൾസ് ഒരു പ്രിയോറി നിർവചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലേഔട്ട് സൃഷ്ടിക്കുമ്പോൾ ധാരാളം ഒപ്റ്റിമൈസേഷൻ ഘട്ടങ്ങൾ നടത്തപ്പെടുന്നു അങ്ങനെ സംഭവിക്കാം ഒരു ഘട്ടത്തിലെ ചില ബഗ് കാരണം ചില ഡിസൈൻ റൂൾസ് ലംഘിക്കപ്പെടുന്നു അതിനാൽ ആ ലംഘനങ്ങൾ നിങ്ങളുടെ ലേഔട്ടിൽ തുടരാൻ അനുവദിക്കുന്നതിനുപകരം ചില ലേഔട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ഫിസിക്കൽ ഡിസൈൻ പരിശോധന നടത്തുക ആ ഡിസൈൻ നിയമങ്ങളിലെ ചില അപാകതകൾ പരിശോധിക്കാൻ ലേഔട്ട് മൊത്തത്തിൽ പരിശോധിക്കുക നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ മാത്രം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡിസൈൻ സൈൻ ഓഫ് എന്ന് വിളിക്കാനാകൂ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ലേഔട്ട് ഡാറ്റ ഫാബ്രിക്കേഷനായി അയയ്ക്കുക ഞാൻ പറഞ്ഞതുപോലെ ഈ ലേ ഔട്ട് ഡാറ്റ സാധാരണയായി ഫൌണ്ടറിയിൽ ഫാബ്രിക്കേഷനായി ചില സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് അയക്കുന്നത് GDS2 എന്നത് വളരെ പ്രചാരമുള്ള ഒരു ഫോർമാറ്റാണ് അതിനാൽ വലുപ്പവും സങ്കീർണ്ണതയും കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഡിസൈനുകളിൽ ഫിസിക്കൽ വെരിഫിക്കേഷനും മെത്തഡോളജീസും അത്യാവശ്യമാണ് ഫാബ്രിക്കേഷനായി ഒരു ഡിസൈൻ അയക്കുന്നത് കാണുക ചിലപ്പോൾ നമ്മൾ അതിനെ ടാപ്പിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നു ടാപ്പിഡ് ഔട്ട് എന്നത് ഡിസൈൻ ഹൌസുകളിൽ വളരെ പ്രചാരമുള്ള ഒരു പദമാണ് ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു പ്രക്രിയയല്ല അതിനാലാണ് ഇതിന് നിരവധി ആവർത്തനങ്ങൾ ആവശ്യമായി വരുന്നത് ഇവ നമ്മൾ നടത്താൻ ശ്രമിക്കുന്ന ചില അഡ്ഹോക്ക് പരിശോധനകളും ഒപ്റ്റിമൈസേഷനുകളും പോലെയാണ് ചില വർദ്ധിച്ചുവരുന്ന പരിഹാരങ്ങൾ അതിനാൽ ഒരു തെറ്റ് പരിഹരിക്കുമ്പോൾ മറ്റേതെങ്കിലും എറർ ഉണ്ടായേക്കാം നിങ്ങൾ അത് തുടർച്ചയായി ചെയ്യണം അതിനാൽ ഈ ഇറ്ററേറ്റിവ് പ്രോസസ്സിൽ ആവശ്യമായി വരുമ്പോൾ റീ ചെക്കിങ്ങും റീ ടെസ്റ്റിംഗും ആവശ്യമായി വന്നേക്കാം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട അവസാന പ്രക്രിയയാണിത് നിങ്ങളുടെ ഡിസൈൻ ഫാബ്രിക്കേഷനായി ടേപ്പ് ഔട്ട് ചെയ്യുന്നതിനുമുമ്പ് നിങ്ങൾ അതിൽ സംതൃപ്തരായിരിക്കണം അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഡിസൈൻ റൂൾ ചെക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് മിനിമം വിഡ്ത് മിനിമം സെപറേഷൻ വ്യത്യസ്ത ലയേഴ്സ് കോൺടാക്റ്റിന്റെ മിനിമം സൈസ് ഇതെല്ലാം വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ വേർതിരിക്കലുകളും ഈ വീതികളും ലാംഡ എന്ന് നമ്മൾ പരാമർശിക്കുന്ന ബേസിക് ഫീച്ചർ സൈസിന്റെ അ ടിസ്ഥാനത്തിലാണ് ഇവ സാധാരണയായി വ്യക്തമാക്കുന്നത് അതിനാൽ ടെക്നോളജീസ് സ്കെയിലുകൾ പറയുന്നതുപോലെ 0 25 മൈക്രോണിൽ നിന്ന് 0 18 മൈക്രോൺ മുതൽ 0 12 മൈക്രോൺ വരെ ഇന്നത്തെ അതേ 22 നാനോ മീറ്ററും അതിനുമപ്പുറവും അവർ ഡിസൈൻ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എല്ലാ നിയമങ്ങളും ബേസിക് ഫീച്ചർ സൈസ് ലാംഡയുടെ അടിസ്ഥാനത്തിലാണ് 0 022 മൈക്രോൺ 22 നാനോ മീറ്റർ സാങ്കേതികവിദ്യയ്ക്ക് 0 22 മൈക്രോൺ അവിടെ ലാംഡ 0 022 മൈക്രോൺ അല്ലെങ്കിൽ 22 നാനോ മീറ്റർ ആയിരിക്കും അതിനാൽ ലാംഡയുടെ ആ പാരാമീറ്റർ ലാംഡയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഡിസൈൻ നിയമങ്ങൾ നിർവ്വചിക്കുകയും നിങ്ങൾ അത്തരം ഡിസൈനുകൾ പരിശോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സാധാരണയായി ഒരുതരം ടെംപ്ലേറ്റ് അടിസ്ഥാനമാക്കിയുള്ള മാച്ചിങ് ആണ് നിങ്ങൾ ധാരാളം ടെംപ്ലേറ്റുകൾ നിർവ്വചിച്ചിട്ടുണ്ട് കാരണം ഡിസൈൻ റൂൾ പരിശോധന ബുദ്ധിമുട്ടാണ് ഒരു വിൻഡോ കൈൻഡ് തിങ് സ്ലൈഡുചെയ്ത് മുഴുവൻ നെറ്റ്ലിസ്റ്റുമായി ആ ടെംപ്ലേറ്റുകൾ പൊരുത്തപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു ഞാൻ ഒരു ഉദാഹരണം കാണിക്കുന്നു ഈ ചുവന്ന ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഒരു വിൻഡോ ഇവിടെയുണ്ട് ഈ ചുവന്ന ബോക്സിൽ ഇതുപോലുള്ള ഒരു സിഗ്സാഗ് കണക്ഷൻ ഉണ്ട് അവിടെ കുറച്ച് കുറഞ്ഞ വീതി പ്രതീക്ഷിക്കുന്നു എന്നാൽ ചില ഫാബ്രിക്കേഷൻ എറർ കാരണം ഈ ലൈനിന്റെ വീതി കുറഞ്ഞു അതിനാൽ ഇത് നമ്മുടെ ഡിസൈൻ നിയമ ലംഘനമാണ് അതിനാൽ നിങ്ങൾക്ക് ലേഔട്ടിൽ കുറച്ച് പരിശോധന നടത്തുകയും അത്തരം ഡിസൈൻ ലംഘനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാം അതിനാൽ ഈ പാറ്റേണുകൾ വ്യത്യസ്ത തരം പാറ്റേണുകളുടെ വ്യത്യസ്ത സംഗ്രഹം ആകാം നിങ്ങൾ അത് നീക്കി ഈ വിൻഡോയ്ക്ക് കീഴിൽ കാണുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്നിനൊപ്പം പൊരുത്തപ്പെടുന്നതാണോ എന്ന് കാണുക ഇത് സാധാരണയായി ചെയ്യുന്നത് ഇതാണ് ഇത് വളരെ സമയമെടുക്കുന്ന പ്രക്രിയയാണെന്ന് വിശ്വസിക്കൂ കാരണം നിങ്ങൾ മുഴുവൻ ലേഔട്ടിലൂടെയും നോക്കേണ്ടതുണ്ട് ഇത് വളരെ സമയമെടുക്കുന്ന പ്രക്രിയയാണ് പക്ഷേ ഇത് അർത്ഥമാക്കുന്നത് കാരണം ഇത് അയച്ചതിനുശേഷം മാത്രമാണ് ഫാബ്രിക്കേഷനുള്ള നിങ്ങളുടെ ഡിസൈൻ അത് വീണ്ടും വളരെ ചെലവേറിയതാണ് അതിനു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും പിശക് ഉണ്ടാകാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ ഇതിൽ സംതൃപ്തനാകുമ്പോൾ നിങ്ങൾക്ക് ഒടുവിൽ ഈ ഡിസൈൻ ഫാബ്രിക്കേഷനായി അയയ്ക്കാം ടാപ്പ് ഔട്ട് അതിനുശേഷം നിങ്ങളുടെ അവസാന ചിപ്പ് നിർമ്മിക്കപ്പെടും അതിനാൽ നിങ്ങൾ കണ്ടത് ഫിസിക്കൽ ഡിസൈൻ പ്രക്രിയയിൽ ആവശ്യമായ വ്യത്യസ്ത ഘട്ടങ്ങൾ ഒരു ബേഡ് 'സ് ഐ വ്യൂവിൽ വളരെ വേഗത്തിൽ വളരെ ഉയർന്ന ലെവലിൽ ഒരു അവലോകനം നമ്മൾ നോക്കി എന്നതാണ് തുടർച്ചയായ മൊഡ്യൂളുകളിൽ നമ്മൾ കൂടുതൽ വിശദമായി കൈകാര്യം ചെയ്യും കൂടാതെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കുറഞ്ഞ പവർ ഡിസൈനിനെ കുറിച്ചുള്ള ചില പ്രത്യേക പരിഗണനകളാണ് കാരണം കുറഞ്ഞ പവർ ഡിസൈനിംഗും ഇപ്പോൾ വളരെ പ്രധാനമാണ് കാരണം മിക്ക കമ്പ്യൂട്ടിംഗ് ഗാഡ്ജെറ്റുകളും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ മൊബൈലുകൾ ടാബ്ലെറ്റുകൾ എന്നിവയെല്ലാം നമ്മുടെ ഓഫീസുകളിലെ ഡെസ്ക്ടോപ്പുകൾ ഒഴികെ മറ്റുള്ളവയെല്ലാം ബാറ്ററികളിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കേണ്ടത് വളരെ പ്രധാനമാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇതോടെ നമ്മൾ ഈ പ്രഭാഷണം 6 ന്റെ അവസാനത്തിലേക്ക് വരുന്നു